നമസ്കാരം പ്രോഗ്രാം ഔട്ട്കംസ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് എന്നിവ കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ 1 യൂണിറ്റ് 20 ലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ കോഴ്സ് ഔട്ട്കംസ് എങ്ങനെ കൈവരിക്കാമെന്നും CO കൾക്ക് ചുറ്റുമുള്ള ക്വാളിറ്റി ലൂപ്പ് എങ്ങനെ അടയ്ക്കണമെന്നും നാം മനസ്സിലാക്കി പ്രോഗ്രാം ഔട്ട്കംസ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് എന്നിവ നേടുന്നതിനുള്ള കണക്കുകൂട്ടലിലേക്ക് നീങ്ങുന്നതിന് അത് മുൻവ്യവസ്ഥയാണ് ഈ യൂണിറ്റ് PO കളുടെയും PSO കളുടെയും അറ്റയ്ന്മെന്റ് കണക്കുകൂട്ടുന്നതിലും PO കൾക്കും PSO കൾക്കും ചുറ്റുമുള്ള ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും കോഴ്സ് ഫലങ്ങൾ കോഴ്സുകൾ എന്നിവയിൽ നിന്ന് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് കോഴ്സ് തലത്തിൽ നമ്മൾ നേടിയതെന്തും PO കളുടെയും PSO കളുടെയും നേട്ടം നിർണ്ണയിക്കാൻ അത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു കൂടാതെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് PO കളും PSO കളും നേടുന്നത് അതായത് PO കളുടെയും PSO കളുടെയും കണക്കുകൂട്ടലിന് പ്രോഗ്രാമിന്റെ 4 വർഷത്തെ കാലയളവിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രവർത്തനങ്ങളിലും ഗണ്യമായ സംഗ്രഹം ആവശ്യമാണ് അതിനാൽ ആ പരിധിവരെ നിങ്ങൾ സമാഹരിക്കുന്ന രീതി അനന്യമായിരിക്കണമെന്നില്ല കൂടാതെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശരിയായ ഒരു മാർഗം മാത്രം ആയി ഒന്നുമില്ല അഗ്രഗേഷൻ പ്രക്രിയയിൽ അമിതമായി വ്യക്തമാക്കുന്നതോ അല്ലെങ്കിൽ കുറച്ചുകാണിക്കുന്നതോ ആയ കാര്യങ്ങളിൽ ഒരാൾ അൽപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് പ്രധാന കോഴ്സുകളിലൂടെയും അഭിസംബോധന ചെയ്യാവുന്ന PO കളും PSO കളും നോക്കാം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇന്നത്തെ നിലയിൽ ഏതെങ്കിലും ബിരുദ പ്രോഗ്രാം 170 ക്രെഡിറ്റ് പ്രോഗ്രാമിൽ 140 ക്രെഡിറ്റുകൾ കോർ കോഴ്സുകൾ ഉൾക്കൊള്ളുന്നു ഈ 140 ക്രെഡിറ്റുകളിൽ പ്രോജക്ടുകളും ഉൾപ്പെടും അതിനാൽ കോർ കോഴ്സുകൾക്ക് പുറമേ ഞങ്ങൾക്ക് പ്രോജക്റ്റുകൾ അവതരണങ്ങൾ ഇന്റേൺഷിപ്പ് കോ പാഠ്യപദ്ധതി പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയുണ്ട് അവയെല്ലാം ഉപയോഗിക്കാം അല്ലെങ്കിൽ PO കളുടെയും PSO കളുടെയും നേട്ടം നിർണ്ണയിക്കാൻ അവ കൂട്ടിച്ചേർക്കാം എന്നാൽ PO കളുടെയും PSO കളുടെയും നേട്ടങ്ങൾ കണക്കുകൂട്ടുന്നതിൽ ഏതൊരു പ്രവർത്തനവും ഉൾപ്പെടുത്തുന്നതിന് എല്ലാ വിദ്യാർത്ഥികളും ആ തിരിച്ചറിഞ്ഞ പ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും പ്രോഗ്രാം ഫലങ്ങൾ നേടിയെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല ഉദാഹരണത്തിന് എലെക്റ്റിവ്സ് എല്ലാ പ്രോഗ്രാമുകളിലും ചില ദിശകളിൽ ആഴം നൽകുന്നതിൽ അവ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു പക്ഷേ PO കളെയും PSO കളെയും കണക്കാക്കാൻ അവ പരിഗണിക്കപ്പെടുന്നില്ല കാരണം എലെക്റ്റിവ്സ് അതിന്റെ സ്വഭാവം കൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും എടുക്കുന്നില്ല എല്ലാ വിദ്യാർത്ഥികളും ഒരേ ഐച്ഛികം എടുക്കില്ല മറ്റൊരു സവിശേഷത ഈ സമാഹരണത്തിന് കമ്പ്യൂട്ടിംഗ് നേട്ടത്തിനായി ഉൾപ്പെടുത്തേണ്ട ഏതൊരു പ്രവർത്തനവും ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രകടനം വ്യക്തമായി അളക്കാനാവുന്നതായിരിക്കണം ചിലപ്പോൾ പ്രകടനം ഒരു എഴുത്ത് പരീക്ഷ പോലെയാണ് അവിടെ നിങ്ങൾക്ക് പ്രകടനത്തെ വിലമതിക്കാനാകും അല്ലെങ്കിൽ ചിലപ്പോൾ അവതരണങ്ങളോ പ്രോജക്റ്റുകളോ പോലെയാകാം നിസ്സംശയമായും അളക്കാവുന്ന ഒരു കൂട്ടം റൂബ്രിക്സ് നിങ്ങൾ നിർവ്വചിക്കേണ്ടതുണ്ട് അതിനാൽ ഇവ രണ്ട് ഗുണങ്ങളാണ് എല്ലാ വിദ്യാർത്ഥികളും PO PSO എന്നിവ നേടുന്നതിന് ഉൾപ്പെടുത്തേണ്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം കൂടാതെ റൂബ്രിക്സും മൂല്യനിർണ്ണയ നടപടിക്രമങ്ങളും വളരെ വ്യക്തമായി നിർവ്വചിക്കണം ഇവിടെ നാം ഇത് കുറച്ചു ലളിതമാക്കുന്നു കോഴ്സുകൾ കോർ കോഴ്സുകൾ പ്രോജക്ടുകൾ അവതരണങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ കോ കരിക്കുലർ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ പ്രോഗ്രാമിന്റെ POPSO നേടിയെടുക്കയും പിന്നെ നിങ്ങൾ PO നേട്ടം കണക്കുകൂട്ടുകയും ചെയുന്നു തുടർന്ന് നിങ്ങൾ POPSO ലക്ഷ്യങ്ങളും സജ്ജമാക്കുന്നു നിങ്ങൾ POPSO ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൈവരിക്കാനുള്ള വിടവാണ് അത് POPSO വിടവുകൾ അടയ്ക്കുന്നതിനോ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള ഒരു പദ്ധതിയിലേക്ക് നയിക്കും ഈ രണ്ടിനും ചുറ്റുമുള്ള ഫീഡ്ബാക്ക് ലൂപ്പ് നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല അത് സൂചിപ്പിച്ചിരിക്കുന്നു POPSO യ്ക്ക് ചുറ്റുമുള്ള ലൂപ്പ് അടയ്ക്കുന്നതിനുള്ള ബന്ധമാണിത് ഉദാഹരണത്തിന് POPSO എങ്ങനെയാണ് കൈവരിക്കുന്നത് ഞങ്ങൾ ഇതിനകം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് നേടുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ PO കളും PSO കളും പ്രധാനമായും നേടിയത് കോർ കോഴ്സുകളിലൂടെയാണ് കാരണം അവ ഒരു ബിരുദ പ്രോഗ്രാമിലെ പ്രവർത്തനങ്ങളുടെ ഗണ്യമായ ശതമാനമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സും ആ കോഴ്സിന്റെ ഓരോ കോഴ്സ് ഔട്ട്കംസും നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത് ഓരോ കോഴ്സ് ഔട്ട്കംസും PO കളുടെയും PSO കളുടെയും ഒരു ഉപവിഭാഗത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നു കൂടാതെ ശക്തികളുടെ വ്യത്യസ്ത തലങ്ങളേയും ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രത്യേക PO യെ ചെറുതായി അഭിസംബോധന ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു PO യെ മിതമായി അഭിസംബോധന ചെയ്തേക്കാം കാരണം നിങ്ങൾ അവിടെ PO വായിക്കുകയാണെങ്കിൽ ഓരോ PO യ്ക്കും നിരവധി പ്രധാന വാക്യങ്ങളുണ്ട് നിങ്ങൾ ഒരു പ്രത്യേക കോഴ്സ് ഔട്ട്കം നോക്കുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാ പ്രധാന പദസമുച്ചയങ്ങളും ആ നിർദ്ദിഷ്ട ഫലത്തിന് ബാധകമാകണമെന്നില്ല അതിനാൽ പ്രധാന വാക്യങ്ങൾ അനുസരിച്ച് എന്ത് സംഭവിക്കും ഒരു നിശ്ചിത PO അല്ലെങ്കിൽ PSO യിലേക്ക് കോഴ്സ് ഫലം മാപ്പ് ചെയ്യുന്ന ഒരു ശക്തിയെ നമുക്ക് എത്രമാത്രം ബന്ധിപ്പിക്കാൻ കഴിയും എന്നതിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഇവിടെ നാം മൂന്ന് ലെവലുകൾ തിരിച്ചറിയുന്നു 1 2 3 1 എന്നാൽ ചെറുതായത് 2 എന്നാൽ മിതമായത് 3 എന്നാൽ കാര്യമായത് ഇതിനുപുറമെ ഇവയെല്ലാം ചെയ്യുമ്പോൾ ചില PO കളെ പ്രോഗ്രാം വേണ്ടത്ര അഭിസംബോധന ചെയ്യുന്നില്ലെന്ന് നാം കണ്ടെത്തിയേക്കാം അങ്ങനെയാണെങ്കിൽ വകുപ്പ് എല്ലാ പ്രധാന കോഴ്സുകളും നോക്കുകയും ഞങ്ങൾ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള PO കളെയും PSO കളെയും അഭിസംബോധന ചെയ്യുന്ന അവയെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം കോഴ്സുകൾ തീരുമാനിക്കുകയും വേണം ആ പരിധിവരെ ഒരു കോഴ്സ് അഭിസംബോധന ചെയ്യേണ്ട PO കളെയും PSO കളെയും നാം മുൻകൂട്ടി തീരുമാനിച്ചേക്കാം കൂടാതെ തിരിച്ചറിഞ്ഞ ഈ PO കളെയും PSO കളെയും എത്തിച്ചേരാൻ ആയിട്ടുള്ള CO കൾ എഴുതേണ്ടതുണ്ട് നാം ആദ്യം OBE ക്ക് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല കാരണം നമ്മൾ എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അവിടുന്ന് PO കളും PSO കളും നിർവചിക്കുകയും CO എഴുതുകയും ചെയ്യുന്നത് വളരെ അപൂർവമാണ് നിങ്ങളുടെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ നിങ്ങൾ രണ്ടാമത്തെ ആവർത്തനം ചെയ്യുമ്പോൾ അത് ആവശ്യമായി വന്നേക്കാം ഒരു PO അല്ലെങ്കിൽ PSO കൈവരിക്കുന്നത് ബന്ധപ്പെട്ട CO കളുടെ നേട്ട നിലയെയും അത് മാപ്പ് ചെയ്ത സ്ട്രെങ്ത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു രണ്ട് വേരിയബിളുകൾ ഉണ്ട് ഒന്ന് എത്രത്തോളം CO കൾ കൈവരിക്കുന്നു എന്നതാണ് മറ്റൊന്ന് ആ CO ബന്ധപ്പെട്ട PO കളിലേക്ക് മാപ്പ് ചെയ്യുന്ന ശക്തിയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന രണ്ട് വേരിയബിളുകൾ ഇവയാണ് അതിനാൽ ഒരു പ്രത്യേക PO അല്ലെങ്കിൽ PSO യെ കോഴ്സ് അഭിസംബോധന ചെയ്യുന്ന മാപ്പിംഗ് ശക്തിയുടെ അളവ് നിർണ്ണയിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് ആദ്യ കാര്യം ഞങ്ങൾ പറഞ്ഞതുപോലെ മാപ്പിംഗ് ശക്തി 3 തലങ്ങളിൽ നിർവചിച്ചിരിക്കുന്നു താഴ്ന്ന ഇടത്തരം ശക്തമായ അല്ലെങ്കിൽ 1 2 3 അത് പോലെ ഒരു POPSO യുടെ ശക്തി നിർണ്ണയിക്കാൻ ഇവിടെ നിരവധി രീതികളുണ്ട് നിങ്ങൾ ഒരു രീതിയും നൽകുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ വളരെ അവബോധജന്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏകപക്ഷീയമോ ആണ് ഞാൻ ഒരു PO യെ 3 അല്ലെങ്കിൽ 2 ന്റെ ശക്തിയിലേക്ക് അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്നതുപോലെ അതിനാൽ നമുക്ക് അത് ആവശ്യമാണ് പ്രത്യേകിച്ചും ഒരു സ്ഥാപനത്തിലെ ഒരു പ്രോഗ്രാമിലെ നൂറുകണക്കിന് കോഴ്സുകൾ അവയിൽ ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രവർത്തനങ്ങൾ പര്യാപ്തമായി താരതമ്യപ്പെടുത്താനാകില്ല യഥാർത്ഥത്തിൽ അവ ഉദ്ദേശ്യം നിറവേറ്റുന്നില്ല അതിനാൽ എന്താണ് സംഭവിക്കേണ്ടത് ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരേ രീതി പിന്തുടരണം ഒരിക്കൽ കൂടി നാം ഒരു രീതി നൽകുന്നു അത് നിരവധി ഫാക്കൽറ്റികളുമായി പരീക്ഷിച്ച ശേഷം പങ്കെടുക്കുന്ന എല്ലാ ഫാക്കൽറ്റികൾക്കും ന്യായമാണെന്ന് കണ്ടെത്തുന്നു എന്നാൽ മറ്റുള്ളവരുമായി ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഒരു പ്രത്യേക CO PO മാപ്പിങ്ങിന്റെ ശക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പുനർനിർവചിക്കാൻ കഴിയും നമുക്ക് ഒരു രീതി നോക്കാം തന്നിരിക്കുന്ന PO യെ അഭിസംബോധന ചെയ്യുന്ന CO യ്ക്കായി നീക്കിവച്ചിരിക്കുന്ന മണിക്കൂറുകളുടെ എണ്ണവുമായി PO യുടെ നിലയെ ബന്ധപ്പെടുത്തുക എന്നതാണ് ഒരു ലളിതമായ രീതി ഞങ്ങൾ അഭ്യർത്ഥിച്ചതിന്റെ ഒരു കാരണം അതാണ് നിങ്ങൾ ഒരു CO എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റൂം സെഷനുകളുടെ ഏകദേശ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തണം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പ്രക്രിയകൾ കൃത്യമല്ല നിങ്ങൾക്ക് അവയെ ഒരു ചെറിയ ഫോർമുലയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയില്ല എല്ലാം ഏകദേശമായിരിക്കണം എന്നാൽ വർഷങ്ങളായി എല്ലാ വകുപ്പുകളിലുമുള്ള ഒരു പ്രക്രിയ നിങ്ങൾ പിന്തുടർന്നുകഴിഞ്ഞാൽ PO നേടിയെടുക്കുന്നതിന്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടും അത് നാം പിന്നീട് പര്യവേക്ഷണം ചെയ്യും ഉദാഹരണത്തിന് ഞങ്ങൾ പറയുന്നു 40 ത്തിലധികം ക്ലാസ് റൂം സെഷനുകൾ ട്യൂട്ടോറിയലുകൾ അല്ലെങ്കിൽ ലാബ് സമയം ഒരു പ്രത്യേക PO യെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ആ PO ലെവൽ 3 ൽ അഭിസംബോധന ചെയ്യപ്പെടുന്നുവെന്ന് നാം കരുതുന്നു ഉദാഹരണത്തിന് 40 എന്നത് ഒരു പരസ്പര സമ്മതം പോലെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇത് 50 ആക്കാം നിങ്ങൾക്ക് അത് 60 ആക്കാനും കഴിയും കൂടാതെ ക്ലാസ്സ് റൂം സെഷനുകളിൽ 25 മുതൽ 40 വരെ ഒരു പ്രത്യേക PO യെ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ ആ PO ലെവൽ 2 വിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു 5 മുതൽ 25 വരെ ക്ലാസ്റൂം സെഷനുകൾ ഒരു പ്രത്യേക PO യെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ആ PO ലെവൽ 1 ൽ അഭിസംബോധന ചെയ്യുന്നുവെന്ന് കണക്കാക്കുന്നു ക്ലാസ് റൂം സെഷനുകളുടെ 5 ൽ കുറവുള്ള എന്തെങ്കിലും ഒന്നിനെ നമുക്ക് അതിനെ ലെവൽ 1 എന്ന് പോലും പറയാൻ കഴിയില്ലെന്ന് നാം പറയുന്നു അതിനാൽ തന്നെ ആ PO അഭിസംബോധന ചെയ്തിട്ടില്ലെന്ന് നാം പറയുന്നു അതിനാൽ മാപ്പിംഗ് ശക്തിയുടെ ഈ പ്രത്യേക നിർവചനം പിന്നീട് POPSO കൈവരിക്കാനുള്ള കണക്കുകൂട്ടലിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനമായി മാറുന്നു ഒരിക്കൽ കൂടി 1 2 3 എന്നിങ്ങനെ നിരവധി ഓപ്ഷൻ നാം മാപ്പിംഗ് നടത്തുമ്പോൾ ഉള്ളതിനാൽ അവസാനം എന്തെങ്കിലും തരത്തിൽ നോർമലൈസ് ചെയ്യേണ്ടതുണ്ട് അഥവാ സാധാരണവൽക്കരിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ POPSO നേട്ടങ്ങൾ നോർമലൈസ് ചെയ്ത് 1 എന്ന നിലയിലാക്കുന്നു അവ മറ്റേതെങ്കിലും നമ്പറിലേക്കും നോർമലൈസ് ചെയ്യാവുന്നതാണ് ഇത് 10 ആകാം നിങ്ങൾക്ക് 3 5 എന്തും ചെയ്യാം എന്നാൽ എല്ലാവർക്കും എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നായതിനാൽ PO PSO നേട്ടങ്ങൾ 1 എന്ന നിലയിലേക്ക് നോർമലൈസ് ചെയ്തിരിക്കുന്നു അതായത് ഒരു PO യെ 3 എന്ന തലത്തിൽ അഭിസംബോധന ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം മാപ്പിംഗ് ബലം 3 ആണ് എന്നാണ് കൂടാതെ നേട്ടങ്ങൾക്കായി ഞങ്ങൾ സാധാരണയായി ക്ലാസ് ശരാശരി മാർക്കുകൾ ഉപയോഗിക്കുന്നു കാരണം ഒരു CO യുടെ നേട്ടം ആ PO യുടെ 100 നേട്ടവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ PO യുടെ നേട്ടം 1 ആണ് അതാണ് നോർമലൈസേഷൻ പ്രക്രിയ അതിനാൽ ഒരു ക്ലാസ്സിലെ എന്തും വ്യക്തമായും അത് 1 ൽ കുറവായിരിക്കും എന്നാൽ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം നിങ്ങൾ പ്രോഗ്രാം നടത്തുന്ന രീതി മുതലായവയെ ആശ്രയിച്ച് ഇത് 1 നോട് വളരെ അടുക്കാം അതിനാൽ 2 ഘടകങ്ങൾ ഉണ്ട് ഒന്ന് CO യുമായി ബന്ധപ്പെട്ട ക്ലാസ് ശരാശരി മാർക്കും രണ്ട് മാപ്പിംഗിന്റെ കരുത്തുമാണ് അവ PO നേട്ടം നിർണ്ണയിക്കും കൂടാതെ വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി പ്രഖ്യാപിച്ച ചില റബ്രിക്സ് അനുസരിച്ച് അവ വിലയിരുത്തുകയാണെങ്കിൽ ഏതെങ്കിലും പാഠ്യപദ്ധതി പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പ്രകടനവും ഒരു കോഴ്സായി കണക്കാക്കാം ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന 30 മണിക്കൂർ പ്രവർത്തനം പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സെമസ്റ്ററിൽ 1 ക്രെഡിറ്റിന്റെ ഒരു കോഴ്സായി ഒരാൾക്ക് ഒരു പ്രവർത്തനത്തെ പരിഗണിക്കാം എനിക്ക് അത് 1 ക്രെഡിറ്റ് കോഴ്സിന് തുല്യമായി കണക്കാക്കാം പക്ഷേ നാം ഇപ്പോൾ പാഠ്യപദ്ധതിയും പാഠ്യേതര പ്രവർത്തനങ്ങളും കോഴ്സുകളുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് എല്ലാ കോഴ്സുകളും പ്രധാന കോഴ്സുകൾ പ്രോജക്ടുകൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ അവതരണങ്ങൾ എല്ലാം നാം പട്ടികപ്പെടുത്തുന്നു ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട PO കളുടെ നേട്ടം നാം പട്ടികപ്പെടുത്തുകയും കണക്കുകൂട്ടുകയും തുടർന്ന് ശരാശരി എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ശരാശരി കണക്കാക്കുമ്പോൾ നമ്മൾ മൊത്തം കോഴ്സുകളുടെയും പ്രോജക്ടുകളുടെയും പ്രവർത്തനങ്ങളുടെയും എണ്ണം എടുക്കും അതിനാൽ എന്ത് സംഭവിച്ചേക്കാം ഒരു പ്രവർത്തനങ്ങളും അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രത്യേക PO ഞാൻ അതിനെ മൊത്തം സംഖ്യ കൊണ്ട് വിഭജിക്കുമ്പോൾ വ്യക്തമായും ആ നേട്ടം വളരെ ചെറുതായിത്തീരുന്നു ഇത് വകുപ്പിന് അസുഖകരമായ ഒരു തോന്നൽ നൽകും അതിനാൽ അത് ആശങ്കയ്ക്ക് കാരണമാകേണ്ടതില്ല ഞങ്ങൾ അത് വിശദീകരിക്കും അബ്സലിയൂട് വാല്യൂസ് അഥവാ സമ്പൂർണ്ണ മൂല്യങ്ങളല്ല പ്രധാനം എന്നാൽ എൻബിഎ അക്രഡിറ്റേഷൻ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുതൽ മറ്റൊന്ന് വരെയുള്ള റിലേറ്റീവ് വാല്യൂസ് അഥവാ ആപേക്ഷിക മൂല്യങ്ങളാണ് പ്രധാനം ഇപ്പോൾ ഇവയെല്ലാം കണക്കാക്കാൻ നാം ഒരു സാമ്പിൾ കോഴ്സ് എടുക്കുന്നു അനലോഗ് സർക്യൂട്ടുകളും സിസ്റ്റങ്ങളും ക്രെഡിറ്റുകൾ 3 ക്ലാസ് റൂം മണിക്കൂറുകളും ആഴ്ചയിൽ 1 ലബോറട്ടറി സെഷനുമാണ് 6 CO കൾ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് PO കളെയും PSo കളെയും ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നിങ്ങൾക്ക് PO1 ഉണ്ട് നിങ്ങൾക്ക് PO10 PO3 PO4 തുടങ്ങിയവയും PSO1 ഉം ഉണ്ട് മിക്കപ്പോഴും ഏത് കോഴ്സും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ PSO കൾ ശരിയായ രീതിയിൽ എഴുതുകയാണെങ്കിൽ അത് ഒരു PSO1 മായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലാസ് സെഷനുകളുടെയും ലാബ് സെഷനുകളുടെയും എണ്ണം ഇവിടെയുണ്ട് തുടർന്ന് കോഗ്നിറ്റീവ് ലെവെൽസ് നോലെഡ്ജ് ക്യാറ്റഗറീസ് എന്നിവ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണിക്കാൻ കഴിയുന്ന അതേ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ CO1 എന്നത് PO1 PO10 PSO1 എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ പ്രത്യേക CO കൈവരിക്കൽ 62 3 ആണ് അല്ലെങ്കിൽ അത് ശതമാനമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ 0 623 എന്ന് വിളിക്കാം അത് പോലെ ഓരോ CO യുമായും ബന്ധപ്പെട്ട് നാം അനുബന്ധ PO കളെയും CO യുടെ നേട്ടത്തെയും ബന്ധപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു നാം ഇപ്പോൾ എല്ലാ മണിക്കൂറുകളുടെയും എണ്ണം കണക്കാക്കുന്നു 40 മണിക്കൂർ ക്ലാസ് റൂം ഇടപെടലും 28 മണിക്കൂർ ലബോറട്ടറിയും ഉണ്ട് അതിൽ 68 ൽ 11 അതായത് സെഷനുകളുടെ 16 PO1 നായി നീക്കിവച്ചിരിക്കുന്നു ഞങ്ങൾ നിർദ്ദേശിച്ച രീതി അനുസരിച്ച് മാപ്പിംഗ് ശക്തി 1 ആണ് ഇത് 25ൽ താഴെയാണ് എന്നാൽ ഇത് 5 ൽ കൂടുതലാണ് അതിനാൽ ഇത് 1 ആയിത്തീരുന്നു അതേസമയം PO2 നെ സംബന്ധിച്ചിടത്തോളം 68 ൽ 13 അതായത് 19 അതിനാൽ മാപ്പിംഗ് ശക്തി PO2 ന് 1 ആണ് PO3 ന് 68 ൽ 47 മാപ്പിംഗ് ബലം 3 എന്നാൽ PO4 ന് മാപ്പിംഗ് ബലം 3 ആണ് PO5 ന് ഇത് 3 തന്നെയാണ് മായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ പരിധിവരെ ഇത് മാപ്പിംഗ് ശക്തി 3 ആണ് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട PO10 അത് 23ആണ് അത് ഇപ്പോഴും 25ൽ താഴെയാണ് മാപ്പിംഗ് ശക്തി 1 ആണ് PSO 1 എല്ലാ CO കളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ആ പരിധിവരെ മാപ്പിംഗ് ശക്തി 3 ആണ് ഇതാണ് ഇങ്ങനെ പിടിച്ചെടുത്തത് നിങ്ങൾ എല്ലാ PO കളും PSO യും പട്ടികപ്പെടുത്തുന്നു ഇതിൽ 2 PSO കൾ ഉണ്ട് ഈ കോഴ്സിനായുള്ള മാപ്പിംഗിന്റെ ശക്തി 1 1 3 0 എന്നിങ്ങനെ നിങ്ങൾ പട്ടികപ്പെടുത്തുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ചില PO കളെ ഈ കോഴ്സ് അഭിസംബോധന ചെയ്യുന്നില്ല അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എല്ലാ കോഴ്സുകളിലും നമ്മൾ ഇതുപോലെ പിടിച്ചെടുക്കുന്നു അതിനാൽ ഇതാണ് കോഴ്സ് POPSO മാപ്പിംഗ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് POPSO നേട്ടം കണക്കാക്കുക ഒരു POPSO നേടുന്നതിന് നിങ്ങൾ പ്രസക്തമായ CO കളുടെ ശരാശരി നേടുന്നു ഉദാഹരണത്തിന് PO3 നെ അഭിസംബോധന ചെയ്യുന്ന 3 CO കൾ ഉണ്ട് അതിനാൽ നമ്മൾ ആ 3 CO കളുടെ നേട്ടം നോക്കി ഒരു ശരാശരി എടുത്ത് അതിനെ ഒരു സ്കെയിൽ ഫാക്ടർ കൊണ്ട് ഗുണിക്കുക എന്താണ് സ്കെയിൽ ഫാക്ടർ ' ആ പ്രത്യേക പിഒയുടെ യഥാർത്ഥ മാപ്പിംഗ് ശക്തിയും സാധ്യമായ പരമാവധി മാപ്പിംഗ് ശക്തിയും ഞങ്ങളുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും അത് 3 ആണ് അതിനാൽ യഥാർത്ഥ മാപ്പിംഗ് ശക്തി 3 കൊണ്ട് ഹരിച്ചാൽ സ്കെയിൽ ഫാക്ടർ ആയി PO യുടെ നേട്ടം നിങ്ങൾ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കോഴ്സിൽ PO1 നേടുന്നത് ബന്ധപ്പെട്ട 2 CO കളുടെ ശരാശരിയെ 13 കൊണ്ട് ഗുണിക്കണം അതിനാൽ 0 6230 669 എന്നിവയുടെ ശരാശരി അത് നിങ്ങൾക്ക് 0 215 നൽകുന്നു ശരി അങ്ങനെയാണ് നാം PO1 കൈവരിക്കുന്നത് കണക്കാക്കുന്നത് നിങ്ങൾ എല്ലാവർക്കുമായി ഒരേ കണക്കുകൂട്ടൽ നടത്തുന്നു അങ്ങനെയാണ് നമ്മളുടെ അവസാന നിര PO കളുടെ നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നത് കാരണം നിങ്ങൾ ലാബ് സെഷനുകൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ PO3 PO4 എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് മാപ്പിംഗ് ശക്തി 3 ആണെങ്കിലും ശരാശരി ക്ലാസ് മാർക്കുകൾ ഏകദേശം തുല്യമാണ് എന്നാൽ അതിന്റെ മാപ്പിംഗ് ശക്തി കാരണം ആ പ്രത്യേക PO നേട്ടം വളരെ ഉയർന്നതായി മാറുന്നു മറ്റുള്ളവയിൽ മാപ്പിംഗ് ശക്തി വളരെ കുറവാണ് അതാണ് ഇതും കുറയാൻ കാരണം ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് പ്രകടമാക്കുന്നു ഓരോ കോഴ്സിന്റെയും സവിശേഷത മാപ്പിംഗ് ശക്തിയും ഇതിൽ PO കളുടെയും PSO കളുടെയും യഥാർത്ഥ നേട്ടവുമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ആവശ്യത്തിലും കൂടുതലായ പരമാവധി 2 ദശാംശസ്ഥാനങ്ങൾ വരെ കാണിക്കാനാകും ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സംയോജിപ്പിക്കുന്നു ഓരോ പ്രധാന പ്രവർത്തനത്തിനും കോഴ്സിനും പ്രോജക്റ്റിനുമായി നമ്മൾ ഇത് ചെയ്യുന്നു അനുബന്ധ മൂല്യത്തോടെ ഞങ്ങൾ അവയെ ലേബൽ ചെയ്യുന്നു തുടർന്ന് ഈ ഫോമിൽ നേട്ടങ്ങൾ രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ളപ്പോൾ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 30 മുതൽ 35 വരികൾ വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതിനാൽ ഓരോ നിരയിലുമുള്ള എല്ലാ വരികളിലും നിങ്ങൾ ശരാശരി എടുക്കണം ഈ മാട്രിക്സ് യഥാർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ എവിടെയാണെന്ന് നമുക്കും അറിയാം പൊതുവേ പ്രോഗ്രാം നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ രീതി ചില PO കളുമായി ബന്ധപ്പെട്ട് തൃപ്തികരമല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതിന്റെ സൂചനയാണിത് പ്രസക്തമായ എല്ലാ സർവേകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ പരോക്ഷമായ നേട്ടവും നിർണ്ണയിക്കുന്നു അതായത് നമ്മൾ കാണിച്ചത് നേരിട്ടുള്ള നേട്ടമാണ് പ്രസക്തമായ സർവേകളിലൂടെ പരോക്ഷമായ നേട്ടം നിർണ്ണയിക്കേണ്ടത് ഇപ്പോൾ NBA അക്രഡിറ്റേഷൻ പ്രക്രിയയ്ക്ക് കീഴിൽ ആവശ്യമാണ് ഈ സർവേകളിൽ ബിരുദ എക്സിറ്റ് സർവേ പൂർവ്വ വിദ്യാർത്ഥി സർവേ തൊഴിലുടമ സർവേ തുടങ്ങിയവ ഉൾപ്പെടുന്നു അവയിൽ ചിലത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ തൊഴിലുടമകളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ചില ഡാറ്റ ലഭിക്കുന്നതിന് നാം പ്രക്രിയകൾ ക്രമീകരിക്കേണ്ടതുണ്ട് സാധാരണ 80 20 എന്നിങ്ങനെ ചില വെയ്റ്റസ് ഉപയോഗിച്ച് ഞങ്ങൾ അവയെ സംയോജിപ്പിക്കുന്നു 20 സർവേകൾക്കും 80 നേരിട്ടുള്ള നേട്ടങ്ങൾക്കുമായി ഞങ്ങൾ അവയെ സംയോജിപ്പിക്കുന്നു രണ്ടും കൂടി ചേർന്നുകഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ നേട്ടങ്ങൾ ലഭിക്കും ഇപ്പോൾ നമുക്ക് വളരെ സങ്കീർണ്ണമായ ഒരു പട്ടിക നൽകുന്നതിനുപകരം ഒരു സാമ്പിൾ നോക്കാം നമുക്ക് PO10 എടുക്കാം നാം കണ്ട പ്രസക്തമായ എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള നേരിട്ടുള്ള നേട്ടം 0 25 ആണ് പ്രസക്തമായ എല്ലാ സർവേകളുടെയും അടിസ്ഥാനത്തിൽ പരോക്ഷമായ നേട്ടം ഒരുപക്ഷേ നിങ്ങൾ 3 4 സർവേകൾ നടത്തിയിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ 0 355 ആണ് അവയെ 80 20 എന്നീ കണക്കിൽ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് 0 271 ലഭിക്കും അതാണ് നമ്മുടെ യഥാർത്ഥ നേട്ടം എല്ലാ PO കൾക്കും PSO കൾക്കും നിങ്ങൾ ഇത് ആവർത്തിക്കുന്നു ഓരോ പിഒ പിഎസ്ഒ എന്നിവയുടെ ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കുക ലക്ഷ്യം കൈവരിച്ചതിനേക്കാൾ കുറവാണെങ്കിൽ മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക മെച്ചപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ലക്ഷ്യം കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം പുനപരിശോധിക്കുക ഇപ്പോൾ നിങ്ങൾ ലക്ഷ്യം കൈവരിക്കുമ്പോൾ അവ പരിഗണനയോടെ ചെയ്യണം ഒരു പ്രത്യേക PO യ്ക്കായി ഞാൻ എന്റെ ലക്ഷ്യം വെച്ചാൽ ഒരാൾക്ക് വിഷമമുണ്ടാകരുത് ഉദാഹരണത്തിന് PO6 പോലെ എന്റെ നിലവിലെ പ്രോഗ്രാം ഉപയോഗിച്ച് എനിക്ക് 0 05 മാത്രമേ നേടാനാകൂ എന്ന് ഞാൻ പറഞ്ഞേക്കാം ഇത് ഒരു ചെറിയ സംഖ്യ പോലെ കാണപ്പെടുന്നു പക്ഷേ അത് പ്രശ്നമല്ല എന്നാൽ അത് യാഥാർത്ഥ്യമാക്കുക അല്ലാത്തപക്ഷം അത് 0 6 0 7 എന്ന് പറയാൻ ശ്രമിക്കുന്നത് വളരെ യാഥാർത്ഥ്യബോധമില്ലാത്തതായിരിക്കും ഉദാഹരണത്തിന് PO1 മിക്ക കോഴ്സുകളും അഭിസംബോധന ചെയ്യുന്നു PO2 ഇപ്പോൾ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നതുപോലെ നോക്കിയാൽ ഒരു കോഴ്സും അഭിസംബോധന ചെയ്യുന്നില്ല PO6 PO8 എന്നിവ മിക്ക പ്രോഗ്രാമുകളും നേരിട്ട് അഭിസംബോധന ചെയ്യുന്നില്ല അതിനാൽ ഒരു പിഒയുടെ ലക്ഷ്യം 0 1 ൽ കുറവാണെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല PSO കളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ PSO കൾ എഴുതുകയാണെങ്കിൽ 2 മുതൽ 4 വരെ എന്തെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ഒരു PSO യിൽ മാത്രമേ വരൂ പൊതുവെ എല്ലാ പ്രോഗ്രാമുകളിലുമുള്ള സ്ട്രീമുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഒരാൾക്ക് അവ കലർത്താൻ കഴിയും എന്നാൽ വലിയതോതിൽ എല്ലാ പിഎസ്ഒകളും മൂന്നിലൊന്ന് കോഴ്സുകളെയും അഭിസംബോധന ചെയ്യാൻ സാധ്യതയുണ്ട് അതിലധികം അല്ല ആ പരിധിവരെ 0 3 മുതൽ 0 5 വരെ ഒരു PO യ്ക്ക് ഒരു യഥാർത്ഥ ലക്ഷ്യമാകും എന്നാൽ ഞങ്ങൾ ഒടുവിൽ PO നേട്ടങ്ങൾ അല്ലെങ്കിൽ PSO നേട്ടങ്ങൾ മൊത്തം കോഴ്സുകളുടെ എണ്ണം കൊണ്ട് വിഭജിക്കുന്നതിനാൽ 0 3 മുതൽ 0 5 വരെ തികച്ചും ഒരു യഥാർത്ഥ ലക്ഷ്യമാണ് തുടർച്ചയായ പുരോഗതിയേക്കാൾ കേവല ലക്ഷ്യങ്ങൾ കുറഞ്ഞ പരിഗണനയുള്ളതാണെന്ന് ഒരു കാര്യം വീണ്ടും ഓർക്കണം ഉദാഹരണത്തിന് ഈ വർഷം ഞാൻ 0 05 നേടിയിരിക്കാം അടുത്ത വർഷം ഞാൻ അത് 0 06 ആയി മെച്ചപ്പെടുത്തി അത് തുടർച്ചയായ പുരോഗതിയാണ് ഇത് 0 5 ആയാലും 0 05 ആയാലും പ്രശ്നമല്ല തുടർച്ചയായ പുരോഗതിയാണ് പ്രധാനം അതിനാൽ ഈ സമ്പൂർണ്ണ മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ വലുതാക്കുകയോ ചെയ്യരുത് എങ്ങനെയൊക്കെയോ അത് മുഴുവൻ യാഥാർത്ഥ്യബോധമില്ലാത്തതാക്കുന്നു കോഴ്സ് സാമ്പിൾ കോഴ്സ് അഭിസംബോധന ചെയ്യുന്ന PO10 പരിഗണിക്കുക സംയോജിത നേട്ടം 0 25 ആണ് 35 ആണ് കൈവരിക്കാനുള്ള വിടവ് 0 1 ആണ് അടുത്ത വർഷംഅടുത്ത തവണ ഈ കോഴ്സ് നൽകുമ്പോൾ ഈ വിടവ് നികത്താൻ ഞങ്ങൾ നിർദ്ദിഷ്ട പദ്ധതിയിലേക്ക് പോകുന്നു മൂല്യവർദ്ധിത കോർ കോഴ്സായി മൂന്നാം സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ഒരു അധിക കമ്മ്യൂണിക്കേഷൻസ് ലാബ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്നാം സെമസ്റ്റർ മുതൽ ഒരു സെമിനാർ അവതരിപ്പിച്ചു നാലാം സെമസ്റ്ററിൽ ആശയവിനിമയ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള 5 ദിവസത്തെ വർക്ക്ഷോപ്പ് ചേർക്കുക അങ്ങനെയാണ് നിങ്ങൾക്കുള്ള നിർദ്ദിഷ്ട പ്രവർത്തന പദ്ധതികൾ അധ്യാപകനിൽ നിന്നും അധ്യാപകനിലേക്കും നിന്നും പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാമിലേക്കും വ്യത്യാസപ്പെടുന്നത് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു ഒരു പിഒ അല്ലെങ്കിൽ പിഎസ്ഒയെ അഭിസംബോധന ചെയ്യുന്നതും നേടിയെടുക്കൽ കണക്കാക്കുന്നതും ഏറ്റവും മികച്ചതാണെന്ന് നിർണ്ണയിക്കുക അതിന് ഒരിക്കലും ഒരു കൃത്യമായ മൂല്യം ആകാൻ കഴിയില്ല ഉദാഹരണത്തിന് എനിക്ക് എല്ലായ്പ്പോഴും നിർവ്വചിക്കാൻ കഴിയും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിർവ്വചിക്കാൻ കഴിയും PO നേടിയെടുക്കൽ കണക്കുകൂട്ടുന്നതിനുള്ള കൂടുതൽ സങ്കീർണ്ണമായ മാർഗ്ഗം തീർച്ചയായും ന്യായീകരിക്കാവുന്നതാണ് പക്ഷേ ഇത് കൂടുതൽ കൃത്യമാകുമ്പോൾ കൂടുതൽ സങ്കീർണ്ണമാക്കുമ്പോൾ ഒരു സ്ഥാപനത്തിലെ നൂറുകണക്കിന് കോഴ്സുകളിലുടനീളം കമ്പ്യൂട്ടിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന പരിശ്രമം മൂല്യവത്താണോ അല്ലയോ എന്ന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഒരു സ്ഥാപനത്തിലുടനീളം ഒരു രീതി പിന്തുടരുകയും നേട്ടത്തിൽ തുടർച്ചയായ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അസൈൻമെന്റുകളിലേക്ക് വരുമ്പോൾ യാഥാർഥ്യ ബോധമുള്ള PO കൈവരിക്കൽ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രോഗ്രാമിനായി PO കൈവരിക്കലും പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയും കണക്കുകൂട്ടുക നിങ്ങൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അധ്യാപകനാണെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നോക്കുക അസൈൻമെന്റിനെ സംബന്ധിച്ചിടത്തോളം സാങ്കൽപ്പികവും എന്നാൽ യാഥാർഥ്യ ബോധമുള്ളതുമായ സംഖ്യകൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് യഥാർത്ഥ ഡാറ്റയിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ഡാറ്റയിലേക്ക് ആക്സസ് ഉണ്ടാകണമെന്നില്ല പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ഡാറ്റയിലേക്ക് ആക്സസ് ലഭിക്കും ഇത് മൊഡ്യൂൾ 1 ന്റെ അവസാനമാണ് എൻബിഎ നൽകിയ ചട്ടക്കൂടിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈനിന്റെ മോഡ്യൂൾ 2 വിൽ 20 യൂണിറ്റുകളിലൂടെ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യാനും ഓഫർ ചെയ്യാനും താൽപ്പര്യമുണ്ടെങ്കിൽ എൻബിഎ നൽകിയ ചട്ടക്കൂടിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഫലപ്രദമായി അത് ചെയ്യും അതാണ് ഞങ്ങളുടെ മൊഡ്യൂൾ 2 ന്റെ ലക്ഷ്യം ലക്ഷ്യം ഇതിനേക്കാൾ തികച്ചും സ്വതന്ത്രമായ മൊഡ്യൂളായ മൊഡ്യൂൾ 2 ന്റെ ലക്ഷ്യം അതാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി മൊഡ്യൂൾ 2 ലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു